നോഡൽ അനാലിസിസ് സമവാക്യങ്ങളുടെ സജ്ജീകരണം അപ്പോൾ ഞാൻ സർക്യൂട്ട് വീണ്ടും വരയ്ക്കട്ടെ നമുക്ക് V1 V2 V3 എന്നിവ റഫറൻസ് നോഡിന് ആസ്പദമായി ഉണ്ട് അതായതു ഇത് ഇനി ഞാൻ ഇങ്ങനെ I11 I12 I1 I11 I12 I1 എഴുതണം ഇതൊക്കെ നോഡ് ഒന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറണ്ട് ആണ് ഇത് നോഡ് 2 ഇത് നോഡ് 3 കൂടാതെ ഇത് നോഡ് ഒന്നിലേക്ക് കൊടുക്കപ്പെടുന്ന സ്വതന്ത്ര കറണ്ട് ആണ് ഇനി എന്താണ് I11 I11 വേറൊന്നുമല്ല പക്ഷെ V1 R11 ആണ് അതിനാൽ I11 V1 R11 ആണ് അതായത് V1 G11 അപ്പോൾ ഞാൻ V1 G11 എന്ന് എഴുത്തും I12 വേറൊന്നുമല്ല പക്ഷെ ഈ റെസിസ്റ്ററിനു കുറുകെയുള്ള വോൾട്ടേജ് ഞാൻ ഈ റെസിസ്റ്ററിനു കുറുകെയുള്ള വോൾട്ടേജ്ജിനെ V12 എന്ന് വിളിച്ചാൽ അത് V12 R12 ആകും പക്ഷെ ഞാൻ നോഡ് വോൾടേജ് V1 V2 V3 എന്ന് റഫറൻസ് നോഡിനെ അടിസ്ഥാനമാക്കി തിരഞ്ഞെടുത്താൽ ഞാൻ എല്ലാം ആ വേരിയബിളുകളുടെ നാമത്തിൽ എഴുത്തും അതിനാൽ V12 അതായതു ഇതിനു കുറുകെ ഉള്ള വോൾടേജ് വേറൊന്നുമല്ല പക്ഷെ V1 റഫറൻസ് നോഡിനെ അടിസ്ഥാനമാക്കി V2 റഫറൻസ് നോഡിനെ അടിസ്ഥാനമാക്കി ഇത് കിർച്ചോഫ് വോൾടേജ് ലോയിൽ നിന്ന് വ്യക്തമാണ് അതിനാൽ ഇത് V1 V2 R12 ആണ് അതായത് V1 V2 × G12 അപ്പോൾ എനിക്ക് V1 G11 V1 V2 × G12 ഉണ്ട് കൂടാതെ ഈ മുഴുവൻ കറണ്ടും നോഡ് ഒന്നിലേക്ക് ഒഴുകുന്ന സ്വതന്ത്ര കറണ്ട് സ്രോതസിനു തുല്യം ആണ് അടിസ്ഥാനപരമായി I1 അപ്പോൾ അതാണ് എന്റെ നോഡ് ഒന്നിലെ സമവാക്യം ഇതാണ് നോഡ് ഒന്നിലെ KCL അപ്പോൾ സമവാക്യം സൂചിപ്പിക്കുന്നത് കിർച്ചോഫ് കറണ്ട് ലോ ആണ് സമവാക്യത്തിലുള്ള ഓരോ പദങ്ങളും ഘടകങ്ങളുടെ ബന്ധം വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് റെസിസ്റ്ററിന്റെ ഈ കേസ്സിൽ ഞാൻ കറണ്ട് ഇവിടെ എഴുതിയാൽ V1 ×G 11 ഞാൻ ഘടകങ്ങളുടെ ബന്ധം നേരത്തെ ഉപയോഗിച്ചതാണ് അതുപോലെതന്നെ ഞാൻ R12 നു കുറുകെ ഉള്ള വോൾടേജ് V1 V2 എഴുതിയാൽ ഞാൻ KVL ആണ് ഉപയോഗച്ചിരിക്കുന്നത് V1 V2 × G12 ആണ് R12 യിലൂടെ ഒഴുകുന്ന കറണ്ട് എനിക്ക് ഇത് അറിയാവുന്നത് റെസിസ്റ്ററിന്റെ V I ബന്ധം കാരണം ആണ് അപ്പോൾ ഇങ്ങനെ ആണ് ഞാൻ സമവാക്യത്തിലേക്ക് എത്തുന്നത് ഇനി നമുക്ക് ബാക്കി രണ്ട് നോഡുകളും ആയിട്ട് മുന്നോട്ടു പോകാം അപ്പോൾ ഞാൻ ഇത് രണ്ടാമത്തെ നോഡിൽ ചെയ്യട്ടെ അപ്പോൾ വീണ്ടും എന്റെ കൺവെൻഷൻ നോഡ് രണ്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന കറണ്ട് ദൃഢപ്പെടുത്തുക എന്നാണ് അതിനാൽ എനിക്ക് R 1 2 R 2 2 കൂടാതെ R 3 3 ഉള്ള കറണ്ടുകൾ നോഡിൽ നിന്ന് പുറത്തേക്ക് ഈ ദിശയിൽ ഒഴുകുന്നതിന്റെ മൊത്തം തുക 0 ആയിട്ട് എടുക്കണം കാരണം സ്വതന്ത്ര കറണ്ട് സ്രോതസ്സ് ഈ നോഡിലേക്ക് ഘടിപ്പിച്ചിട്ടില്ല നമുക്ക് റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ വലത്തുനിന്ന് ഇടത്തോട്ട് ഈ ദിശയിൽ R12 യിലൂടെ ഒഴുകുന്ന കറണ്ട് എത്രയാണ് അത് V2 V1 R12 V2 V1 R12 ആണ് തീർച്ചയായും അത് V2 V1 × G12 ആണ് നോഡൽ അനാലിസിസിനു കുറച്ചുകൂടി എളുപ്പമാകുന്നതിനു വേണ്ടി റെസിസ്റ്ററിനു പകരം കണ്ടക്ടർ ആണ് സമവാക്യം എഴുതുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഇത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിർവചനം G12 നു 1R12 G11 നു 1R11 അങ്ങനെ അങ്ങനെ R22 യിലൂടെ ഉള്ള കറണ്ട് വേറൊന്നുമല്ല പക്ഷെ V2 × G22 കാരണം R22 നു കുറുകെ V2 പ്രത്യക്ഷപ്പെടും അവസാനം R23 യിലൂടെ ഉള്ള കറണ്ട് V2 V3 × G23 ആണ് ഇനി വീണ്ടും നോഡ് രണ്ടിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറണ്ട് ആണ് നമ്മൾ നോക്കുന്നത് ശ്രദ്ധിക്കുക കറണ്ടിന്റെ ദിശ എപ്പോഴും ഒരു നോഡിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറൻറ് ദിശ ആയിരിക്കും ഇത് ആ നോഡിൽ കുത്തിവെക്കുക സ്വതന്ത്ര കറണ്ട് സ്രോതസ്സിനു തുല്യം ആണ് നോഡ് രണ്ടിൽ കുത്തിവെക്കുക സ്വതന്ത്ര കറണ്ട് സ്രോതസ്സ് 0 ആണ് അപ്പോൾ ഇതിന്റെ എല്ലാം മൊത്തം തുക 0 ആയിരിക്കും അവസാനം നോഡ് 3 നു നമ്മൾ ഈ രണ്ടു കറണ്ട് R23 ലേക് ഒഴുകുന്നത് R33 ലേക് ഒഴുകുന്നത് എന്നിവ കൂട്ടണം ഇത് I 2 ആണ് R23 ലേക് ഈ ദിശയിലേക്ക് ഒഴുകുന്നത് V3 V2 × G23 ആയിരിക്കും R33 ഇൽ ഒഴുകുന്നത് V3 × G33 ആണ് ഇത് I 3 സ്വതന്ത്ര കറണ്ട് നോഡ് 3 ലേക്ക് ഒഴുക്കുന്നതിനു തുല്യമാണ് ഞാൻ ഇത് കൂടുതൽ നന്നായി പുനഃക്രമീകരിക്കാം ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ഒരു വോൾട്ടേജ് അതായത് V1 അടങ്ങിയിട്ടുള്ള പദം തിരഞ്ഞെടുക്കും ഞാൻ V അടങ്ങിയിട്ടുള്ള എല്ലാ പദങ്ങളും തിരഞ്ഞെടുക്കും ഈ കേസിൽ എനിക്കു ഇവിടെ V1 × G11 ഉണ്ട് V1 × G12 അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ V1 × G11 G12 എന്ന് എഴുതും V2 അടങ്ങിയിട്ടുള്ള പദങ്ങൾ എടുക്കും ഈ കേസിൽ അത് ഒരെണ്ണമേ ഉള്ളൂ അപ്പോൾ എനിക്ക് V2 × G12 ഉണ്ട് എനിക്ക് V 3 ഉള്ള പദങ്ങൾ ഒന്നുമേ ഇല്ല ഈ എല്ലാ കറണ്ടുകളും V1 × G11 G12 V2 × G1 കറണ്ട് I1 അതുപോലെതന്നെ ഞാൻ V1 അടങ്ങിയിട്ടുള്ള പദങ്ങൾ എടുക്കും ഇതുപോലത്തെ ഒരെണ്ണമേ എനിക്ക് രണ്ടാമത്തെ സമവാക്യത്തിൽ ഉള്ളു V1 × G12 V2 അടങ്ങിയിട്ടുള്ള പദങ്ങൾ 3V2 × G12 V2 × G22 V2 × G2 എന്നിവ ആണ് അവസാനം V3 അടങ്ങിയിട്ടുള്ളത് ഒരെണ്ണമേ ഉള്ളു V3 × G23 ഉണ്ട് ഇത് മൊത്തം 0 ആണ് അവസാനം ഞാൻ അത് തന്നെ ഇവിടെ ചെയ്യും ആ പദങ്ങൾ ഇല്ല V1 V2 × G23 V3 × G23 G33 ഇത് I3 എനിക്ക് മൂന്ന് സമവാക്യങ്ങൾ ഉണ്ട് എനിക്ക് മൂന്ന് വേരിയബിളുകൾ V1 V2 V3 പരിഹരിക്കുവാൻ വേണ്ടി ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ബാക്കി സർക്യൂട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അപ്പോൾ ഈ മൂന്ന് സമവാക്യങ്ങളെയും ശെരിയാക്കി കൂടാതെ N നോഡ് N 1 സമവാക്യം ഉള്ള ഒരു സർക്യൂട്ടിൽ ഇത് നോഡൽ അനാലിസിസ് സമവാക്യം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ സർക്യൂട്ടിൽ R11 R12 R22 R23 R33 യിൽ കറണ്ട് I1 എനിക്ക് നോഡ് വോൾട്ടേജ് V1 V2 V3 എന്നിവ റഫറൻസ് നോഡിനെ ആസ്പദമായി സമവാക്യത്തിൽ ഉണ്ട് അപ്പോൾ എനിക്ക് നോഡ് 1 യിൽ എന്തുണ്ട് എനിക്ക് V1 × G11 G12 V2 × G12 I1 ഉണ്ട് നോഡ് 2 യിൽ എനിക്ക് V1 G12 V2 × G1 2 G2 2 G2 3 V3 × G 3 0 ഉണ്ട് അവസാനം നോഡ് 3 ഇൽ V2 × G23 V3 × G23 G33 I3 ഉണ്ട് ഇത് സാധാരണയായി മെട്രിക്സ് രീതിയിൽ ആണ് എഴുതുക സൌകര്യപ്രദമായി മെട്രിക്സിന് നല്ലൊരു ആകൃതി ഉണ്ട് അത് നിങ്ങൾ ഒരിക്കൽ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ പദം അനുസരിച്ച് പോകുന്നതിനു പകരം നേരെ തന്നെ ചെയ്യുവാൻ സാധിക്കും ഞാൻ ഈ ഉദാഹരണത്തിൽ ചെയ്തതുപോലെ അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ഈ ലീനിയർ സമവാക്യങ്ങൾ എഴുതും ഇത് ഏത് ലീനിയർ സമവാക്യത്തിലും മെട്രിക്സ് G11 G12 G120 G12 G12 G22 G23 G23 പോലെ എഴുതാം അവസാനം G23 G23 G33 ഇത് മെട്രിക്സ് × വേരിയബിൾ വെക്റ്റർ V1 V2 V3 ഇത് സ്വതന്ത്ര സ്രോതസ്സ് I10 I3 ന്റെ വെക്ടറിനു തുല്യം ആണ് ഇതിൽ പുതിയത് ആയി ഒന്നുമില്ല ഞാൻ ചെയ്തത് ഈ സമവാക്യങ്ങൾ എഴുതുക ഈ മൂന്ന് സമവാക്യങ്ങൾ ഈ മൂന്ന് വേരിയബിൾ അടങ്ങിയിട്ടുള്ളത് മെട്രിക്സ് രൂപത്തിൽ അപ്പോൾ എനിക്ക് 3 ബൈ 3 മെട്രിക്സ് × വേരിയബിൾ വെക്റ്റർ സ്വതന്ത്ര സ്രോതസ്സ് വെക്റ്റർ സ്പഷ്ടം ആയിട്ട് ആദ്യത്തെ നിര ആദ്യത്തെ സമവാക്യം G11 G12 × V1 ആയിട്ട് യോജിച്ചിരിക്കുന്നു ഇതാണ് നമുക്ക് ഇവിടെ ഉള്ളത് G12 × V2 നമുക്ക് ഇവിടെ ഉള്ളത് I1 ആണ് ഇതാണ് നമുക്ക് അവിടെ ഉള്ളത് അപ്പോൾ ഓരോ പദങ്ങളിലേക്കും പോകാം എന്നിട്ട് ഓരോരോ പദങ്ങളും തിരിച്ചറിയാം അതിനാൽ ആദ്യത്തെ നിര നോഡ് 1 നു അനുസൃതമായിട്ടാണ് രണ്ടാമത്തെ നിര നോഡ് 2 മൂന്നാമത്തെ നോട് 3 അതിനാൽ നോഡൽ അനാലിസിസ് സമവാക്യം അതായത് ബാക്കി അടിസ്ഥാനപരമായി എഴുതുന്നത് നോഡിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറണ്ട് ആയിട്ടാണ് റെസിസ്റ്ററുകളിൽ ആ നോഡിൽ കുത്തിവെക്കുക സ്വതന്ത്ര കറണ്ട് സ്രോതസ്സിനു തുല്യം ആണ് ഇത് മെട്രിക്സ് രൂപത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നോഡൽ അനാലിസിസിന്റെ സമവാക്യങ്ങൾ എനിക്ക് 3 ബൈ 3 കണ്ടക്ടൻസ് മെട്രിക്സ് ഉണ്ട് പൊതുവായി പറഞ്ഞാൽ ഒരു n നോഡ് സർക്യൂട്ടിൽ കണ്ടക്ടൻസ് മെട്രിക്സ് n 1 × n 1 ആയിരിക്കും ഇനി ഞാൻ ഇങ്ങനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത് ഇത് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റുകൾ അത് മെട്രിക്സ് ആണെന്ന് കാണിക്കുവാൻ ഉപയോഗിക്കും ഇത് എന്താണ് ഇത് വേരിയബിളുകളുടെ വെക്ടർ ആണ് ഇതിന്റെ വലിപ്പം ഈ കേസിൽ അത് മൂന്ന് ആണ് ഇപ്പോൾ അത് 3 × 1 മെട്രിക്സ് ആണ് പൊതുവായി അത് N 1 × 1 ആയിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി വെക്ടർ അടങ്ങിയിരിക്കുന്നത് എല്ലാ നോഡ് വോൾട്ടേജും റഫറൻസ് നോഡിനെ ആസ്പദമായിട്ടാണ് അത് N 1 എണ്ണം ആയിരിക്കും അവസാനം വലതു വശത്തെ പ്രവേശനം ഇത് അനുരൂപമായിരിക്കുക സ്രോതസ്സുകളുടെ വെക്റ്റർ ആയിട്ടാണ് ഇത് അനുരൂപമായിരിക്കുക സ്രോതസ്സുകളുടെ വെക്റ്റർ ആയിട്ടാണ് അപ്പോൾ എനിക്ക് എന്താണ് ഉള്ളതെന്ന് വച്ചാൽ കണ്ടക്ടൻസ് മെട്രിക്സ് G × വോൾട്ടേജിന്റെ വെക്റ്റർ V അതായതു I സ്വതന്ത്ര സ്രോതസ്സുകളുടെ വെക്റ്റർ അതിനാൽ ഇത് ഇതാണ് ഇത് അതും അപ്പോൾ ഇത് നമുക്ക് ഒതുക്കമുളള ചിഹ്നം തരും അപ്പോൾ ഇത് x y പോലെയാണ് കൂടാതെ x കണ്ടുപിടിക്കുന്നതിനായി x y a ചെയ്യുക a വെറും ഒരു സംഖ്യ ആകുമ്പോൾ സ്കെലാർ ആക്കുമ്പോൾ പക്ഷെ അത് തന്നെ ഇവിടെയും പ്രാവർത്തികം ആണ് അപ്പോൾ വെക്റ്റർ V പരിഹരിക്കുന്നതിനായി നിങ്ങൾ G 1 × I ചെയ്യണം അപ്പോൾ ഇതാണ് നോഡൽ അനാലിസിസിന്റെ സമവാക്യത്തിന്റെ പരിഹാരം അപ്പോൾ നിങ്ങൾ ആദ്യം നോഡൽ അനാലിസിസ് സമവാക്യം ഉണ്ടാക്കുക ഞാൻ കണ്ടക്ടൻസ് മെട്രിക്സിന്റെ ആകൃതി ചൂണ്ടിക്കാണിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആദ്യം തന്നെ സമവാക്യങ്ങൾ എഴുതേണ്ടതും എന്നിട്ട് മെട്രിക്സ് രൂപീകരിക്കേണ്ടതുമായ കാര്യമില്ല നിങ്ങൾക്ക് ആദ്യം തന്നെ മെട്രിക്സ് രൂപീകരിക്കാം മെട്രിക്സ് സമവാക്യങ്ങൾ ചെറിയ മെട്രിക്സിനു വേണ്ടി പരിഹരിക്കാം സാധാരണയായി 2 2 അല്ലെങ്കിൽ 3 3 നിങ്ങൾക്ക് ചെയ്യാം കൈകൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് നീങ്ങുക അതിനാൽ ഒരു കണ്ടക്ടൻസ് മെട്രിക്സ് ഉണ്ടാക്കുവാൻ ഒരു ചിട്ടയോടുകൂടിയ വഴി ഉണ്ട് അതുവഴി ഒരു വലിയ സർക്യൂട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ചിട്ടയോടുകൂടിയ വഴി